പ്രഭാഷണം 05 എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന്റെ ആമുഖം V എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കുറിച്ചുള്ള നമ്മുടെ എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം ഞാൻ ഐഐടി ഖരഗ്പൂരിലെ രാജരാം നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചുകൊണ്ടു ഇരിക്കുകയാണ് അതിൽ നമ്മൾ 5 ആം ലെക്ചർ നമ്പറിലാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന്റെ ആമുഖം Bhatt മറ്റുള്ളവരും എഴുതിയ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗാണ് നമ്മുടെ കോഴ്സ് പാഠപുസ്തകങ്ങൾ 1 മുതൽ 4 വരെയുള്ള പ്രഭാഷണത്തിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആമുഖം ഡ്രോയിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ട സാധാരണ അക്ഷര ശൈലി എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഡ്രോയിംഗ് ഷീറ്റിന്റെ സ്റ്റാൻഡേർഡ് ലേയൌട്ടുകൾ ഡൈമെൻഷൻ ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്നിവയെ കുറിച്ച് നോക്കി ഇന്നത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ഡൈമെൻഷനിംഗിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കും പ്രതേകിച്ചു ആർക്കുകൾ സർക്കിളുകൾ കർവുകൾ സമാന്തര തരത്തിലുള്ള ഡൈമെൻഷൻസ് എങ്ങനെ നൽകാം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ നോക്കും അവസാന ക്ലാസുകൾ സംക്ഷിപ്തമായി സംഗ്രഹിക്കുകയാണെങ്കിൽ വലുപ്പത്തെയും സ്ഥാനത്തെയും പ്രതിനിധീകരിക്കുന്നതിന് ഡൈമെൻഷൻ ഉപയോഗിക്കുന്നു എന്ന് നോക്കി ഉചിതമായ യൂണിറ്റുകളിൽ പ്രകടിപ്പിക്കുന്ന ഒരു സംഖ്യാ മൂല്യമാണ് ഒരു ഡൈമെൻഷൻ നമ്മുടെ എസ്ഐ മെട്രിക് യൂണിറ്റുകളിൽ അളവിനായുള്ള ഒരു സംഖ്യാ മൂല്യമായി നമ്മൾ എംഎം ഉപയോഗിക്കുന്നു ഉൽപാദന കര്യത്തിലെ യന്ത്രജ്ഞരുമായുള്ള പ്രാഥമിക ആശയവിനിമയത്തിനു വേണ്ടിയാണ് ഇത് ലീനിയർ ഡൈമെൻഷൻസ് കോണീയ ഡൈമെൻഷൻസ് എങ്ങനെ നൽകാം അത് ആരമാണെങ്കിൽ റഫറൻസ് ഡൈമെൻഷൻസ് എങ്ങനെ നൽകാം എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു ആദ്യം നമ്മൾ നിങ്ങളെ സംഖ്യകളുടെയും അളവുകളുടെയും അടിസ്ഥാനത്തിൽ സംഗ്രഹിച്ചു ഇവിടെ ഈ ആകൃതിയിൽ ഉള്ള ഒബ്ജെക്ടിനെ നമ്മൾ 1 75 അടിസ്ഥാന ഡൈമെൻഷനായി കാണിച്ചിരിക്കുന്നു കൂടാതെ രേഖയെ പ്രതിനിധീകരിക്കുന്നതിന് ഒരു ഡൈമെൻഷനിലുള്ള രേഖയുമുണ്ട് ഇത് കുറഞ്ഞത് 10 മില്ലീമീറ്ററാണെങ്കിൽ നമ്മൾ അത് ആ ഭാഗത്ത് മാത്രം കാണിക്കും അതിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ അകലെ നിന്ന് ഇതുപോലെ മറ്റൊരു ഡൈമെൻഷൻ ഉപയോഗിക്കുന്നു ഏതെങ്കിലും ഡൈമെൻഷൻസ്നെ പ്രതിനിധീകരിക്കുന്നതിന് നമുക്ക് വിപുലീകരണ രേഖകൾ ആവശ്യമാണ് എന്തെങ്കിലും വളവുകൾ ഉണ്ടെങ്കിൽ അതിനെ ഒരു ആരം രേഖയിലൂടെ പ്രതിനിധീകരിക്കുന്നു ലീഡർ രേഖകൾ എന്ന് വിളിക്കുന്ന രേഖയുടെ വ്യാസം അല്ലെങ്കിൽ ദൂരം പോലുള്ളവയെ വിവരിക്കുന്നതിനു വിപുലീകരണ രേഖ ഉപഗോഗിക്കുന്നു ഏത് വ്യാസത്തിനും നമ്മൾ പ്രത്യേക ചിഹ്നം ഫൈ ഉപയോഗിക്കുന്നു സെന്റർ പോലുള്ളവയെ പ്രതിനിധീകരിക്കുന്നതിന് നമ്മൾ ഒരു ഡാഷ് ചെറിയ ഡാഷ് നീളമുള്ള ഡാഷ് ഉപയോഗിച്ച് സെന്റർരേഖയെ കാണിക്കുന്നു അവ സ്കെയിൽ വരെ ഇല്ലെങ്കിൽ സാധാരണയായി നമ്മൾ ആ ഡൈമെൻഷൻസ്കളെ പ്രതിനിധീകരിക്കുന്നു ഏതെങ്കിലും റഫറൻസുമായി ബന്ധപ്പെട്ട് പരാൻതീസിസിനുള്ളിൽ നമ്മൾ ഒരു റഫറൻസ് അളവ് ഉപയോഗിക്കുന്നു സാധാരണയായി നമ്മുടെ ഡ്രോയിംഗ് ഷീറ്റുകളിൽ എല്ലാ ഡൈമെൻഷൻസ്കളും മില്ലീമീറ്ററിലാണ് എന്ന് ഒരു വാക്യം നമ്മൾ പരാമർശിക്കുന്നു ഓരോ തവണയും എംഎം എഴുതുന്നതിനുപകരം എല്ലാ ഡൈമെൻഷൻസ്കളും എംഎം ലാണ് എന്ന് ഒരു സാധാരണ വാചകമായി ഉപയോഗിക്കുന്നു ഒരു ഒബ്ജക്റ്റിന്റെ ഡൈമെൻഷൻസ്കൾ എങ്ങനെ പ്രതിനിധീകരിക്കാമെന്ന് കാണിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉദാഹരണവുമായി നമ്മൾ പോയി ഇതിനായി നമ്മൾ വിപുലീകരണ രേഖകൾ അകത്തെ ചെറിയ ഡൈമെൻഷൻസ്കൾ പുറത്ത് ഏറ്റവും വലിയ ഡൈമെൻഷൻസ്കൾ എന്നിവ ഉപയോഗിക്കുന്നു ഒരു ഒബ്ജക്റ്റിന്റെ അളവുകൾ എങ്ങനെ പ്രതിനിധീകരിക്കാമെന്ന് കാണിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉദാഹരണവുമായി നമ്മൾ പോയി നമ്മൾ വിപുലീകരണ ലൈനുകൾ അകത്തെ ചെറിയ അളവുകൾ പുറത്ത് ഏറ്റവും വലിയ അളവുകൾ എന്നിവ ഉപയോഗിക്കുന്നു അതിനാൽ ഏറ്റവും ചെറിയത് ജ്യാമിതിക്കുള്ളിലും ഏറ്റവും വലുത് ജ്യാമിതിക്ക് പുറത്തുമുള്ളതിന്റെ കാരണം ഇതാണ് ഒബ്ജക്റ്റിനുള്ളിൽ ഒരു ഡൈമെൻഷൻസ് കാണിക്കാതിരിക്കുക എന്നത് ഒരു സാധാരണ രീതിയാണ് അതുപോലെ ഇവ സിലിണ്ടർ വസ്തുക്കളാണെങ്കിൽ നമ്മൾ ഫൈ എന്ന ചിഹ്നത്തിലൂടെ ഒബ്ജക്റ്റിന് പുറത്തുള്ള പ്രധാന വ്യാസങ്ങൾ കാണിച്ചു അതിനാൽ ഇവിടെ ഇത് ഒരു സിലിണ്ടറാണ് നമുക്ക് 1 പടി ഉണ്ട് വീണ്ടും നമുക്ക് പടി 1 ഉണ്ട് അതിനാൽ ഏറ്റവും ചെറിയ ഡൈമെൻഷൻസ് അകത്തും ഏറ്റവും വലിയ ഡൈമെൻഷൻസ് പുറത്തും കാണിക്കുന്നു ഒബ്ജക്റ്റിനുള്ളിൽ നമ്മൾ സാധാരണയായി ഒന്നും കാണിക്കില്ല ഡൈമെൻഷൻസ് കാണിക്കുന്നതിനുള്ള തെറ്റായ മാർഗം ആണ് അത് കോണുകളും കോർഡിനേറ്റുകളും ഉപയോഗിച്ച് നമ്മൾ അളവുകൾ കാണിച്ചു സിസ്റ്റത്തെ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചെരിഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഈ അങ്ങേയറ്റത്തെ പോയിന്റ് 4 യൂണിറ്റുകളെ സൂചിപ്പിക്കുന്നു നമ്മുടെ എക്സ്റ്റൻഷൻ രേഖകളിലൂടെയും ഈ പോയിന്റ് ഉപയോഗിച്ച് 1 യൂണിറ്റ് പോലെ കാണിക്കാൻ കഴിയും അതിനാൽ ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പോയിന്റുകൾ അറിഞ്ഞുകഴിഞ്ഞാൽ ഈ രേഖയിൽ എവിടെ ചേരണമെന്ന് നമുക്കറിയാം ഈ ചെരിഞ്ഞ രേഖകൾ നിർമ്മിക്കാൻ കഴിയുന്ന രീതിയാണിത് ഈ തുടർച്ചയായ രേഖകൾ ഉപയോഗിച്ച് നമ്മൾ ഷാംഫെറിംഗ് ലൈനുകളെ പ്രതിനിധീകരിക്കുന്നു വിടവ് വളരെ ചെറുതായതിനാൽ ഡൈമെൻഷൻ പുറത്താണെന്ന് ശ്രദ്ധിക്കുക അതിനാൽ ഈ വിധത്തിൽ ഇത് കാണിക്കുന്നത് നല്ല രീതിയല്ല ഈ ചെറിയ ഡൈമെൻഷൻസ്കൾ പുറത്തു നിന്ന് കാണിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു കൂടാതെ 45 ഡിഗ്രി കോണിലുള്ള ഷാംഫെറിംഗ് ഉണ്ട് അവ ഒരൊറ്റ സ്ഥാനങ്ങളിലെ ആർക്കുകളാണെങ്കിൽ നമ്മൾ സാധാരണയായി ഡൈമെൻഷൻ രേഖ ലീഡർ രേഖ എന്നിവ ഉപയോഗിച്ച് യൂണിറ്റുകളെ പ്രതിനിധീകരിക്കുന്നു ഒരു സ്ഥാനത്ത് ആയിരിക്കും ആർ പ്രതിനിധാനം ചെയ്യുന്നത് ആരം 6 യൂണിറ്റുകൾ ആകുന്നു എന്നാണ് അതുപോലെ ഈ ആർക്കിനെ നമ്മൾ ഇവിടെ നിന്ന് അളക്കാൻ പോകുന്നു പക്ഷേ ലീഡർ രേഖകൾ ഉപയോഗിച്ച് ചെറിയ യൂണിറ്റുകളെ പ്രതിനിധീ കരിക്കാൻ സാധിക്കും നമ്മൾ സാധാരണയായി ഇത് ഒബ്ജക്റ്റിനുള്ളിൽ ഇവിടെ കാണിക്കില്ല അതുപോലെ സങ്കീർണ്ണമായ ഏതെങ്കിലും രൂപങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ താൽപ്പര്യമുള്ള പ്രദേശം വലയം ചെയ്യുകയും കൃത്യമായ കട്ട് ഡൈമെൻഷൻസ്കൾ ഉപയോഗിച്ച് വിശാലമായ കാഴ്ചകളായി കാണിക്കുകയും ചെയ്യുന്നു അത് കഴിഞ്ഞു ഡ്രോയിംഗ് രേഖകൾക്കായി ഉപയോഗിക്കുന്ന വ്യത്യസ്ത നിയമങ്ങൾ നമ്മൾ അറിയാൻ ശ്രമിച്ചു അവയിൽ ചിലത് വലുപ്പം സ്ഥാനം ഇവയെ എങ്ങനെ പ്രതിനിധീകരിക്കാം എന്നൊക്കെയാണ് ഉദാഹരണത്തിന് എന്തെങ്കിലും വ്യാസമുണ്ടോ അവ എങ്ങനെ പ്രതിനിധീകരിക്കണം എന്ന് നോക്കുന്നു അതിനാൽ ഇവിടെ വലുപ്പം എസ് ചിഹ്നത്തെയും സ്ഥാനത്തെയും പ്രതിനിധീകരിക്കുന്നു അതിനാൽ നമ്മൾ അതിനെ എൽ എസ് എന്ന് പ്രതിനിധീകരിക്കുന്നു ഇതാണ് വലുപ്പം ഇതാണ് സ്ഥാനം ദ്വാരം ആ പ്രത്യേക സ്ഥലത്താണ് ഇപ്പോൾ ഡൈമെൻഷനിംഗ് സംബന്ധിച്ച പ്രത്യേക പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരാം ഈ വരികൾ ഡൈമെൻഷൻ ചെയ്യുന്നതിന് വ്യത്യസ്ത മാർഗങ്ങളുണ്ട് അവയിലൊന്നിനെ ചെയിൻ ഡൈമെൻഷനിംഗ് എന്ന് വിളിക്കുന്നു ഓരോ ഡൈമെൻഷൻകളും ഒരു വിടവില്ലാതെ അടുത്ത ഡൈമെൻഷനോട് നേരിട്ട് ചേർക്കുമ്പോൾ ഇത് ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ഈ ഒബ്ജക്റ്റ് എടുക്കാം ഒരു സ്റ്റെപ്പ് ബ്ലോക്ക് ഉണ്ട് ഇതിന് കുറച്ച് ദ്വാരങ്ങളുമുണ്ട് അതിനാൽ ദ്വാരങ്ങളും സർക്കിളുകളും മറ്റും ഉണ്ടാകുമ്പോഴെല്ലാം നമ്മൾ സാധാരണയായി ഈ ഡാഷ് ഡോട്ട് രേഖകൾ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ ചെയിൻ ഡൈമൻഷനിംഗ് ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വിപുലീകരണ രേഖ ഉണ്ട് മറ്റൊരു ഒരു വിപുലീകരണ രേഖ ഉണ്ട് വീണ്ടും ഒരു വിപുലീകരണ രേഖ കൂടി ഉണ്ട് അതിനിടയിൽ നമ്മൾ 20 എന്ന ഡൈമെൻഷൻ കാണിക്കാൻ പോകുന്നു വീണ്ടും ഇത് 25 ഉം വീണ്ടും ഇത് 28 ഉം ആണ് ഈ വിപുലീകരണ രേഖകൾ തമ്മിൽ ഒരു വിടവും ഇല്ല പരസ്പരം അടുത്തായി ഇരിക്കുന്നു ഈ ഡൈമെൻഷൻസുകളെ നമ്മൾ ഡൈമെൻഷൻ ലൈൻ ആരോസ് ഉപയോഗിച്ച് കാണിക്കുന്നു അതുപോലെ ലംബ ദിശയ്ക്കായി നമുക്ക് മറ്റൊരു നിറം ഉപയോഗിക്കാം ഇവ വിപുലീകരണ രേഖകളാണ് അതിൽ നമ്മൾ ഡൈമൻഷൻ ലൈൻ ഉപയോഗിക്കും വീണ്ടും ഡൈമൻഷൻ ലൈൻ ഇവിടെ വീണ്ടും ഡൈമൻഷൻ ലൈൻ ഉണ്ട് അതിനാൽ അവർക്കിടയിൽ ഒരു വിടവും ഇല്ല ഒരേ തലത്തിൽ ഇത് പരസ്പരം കാണിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ നമ്മൾ ചെയിൻ ഡൈമെൻഷനിംഗ് എന്ന് വിളിക്കുന്നു ടോളറൻസ് ശേഖരണം ഭാഗത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഈ രീതി നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂ അടുത്ത ക്ലാസിലെ ഈ ടോളറൻസ് പ്രശ്നങ്ങൾ എന്തൊക്കെ ആണ് എന്ന് പഠിക്കും 25 മില്ലീമീറ്ററിന് പകരം നമുക്ക് പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 51 മില്ലീമീറ്റർ തരത്തിലുള്ള യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ഈ അധിക കാര്യത്തെ നമ്മൾ ടോളറൻസുകൾ എന്ന് വിളിക്കുന്നു അതിനർത്ഥം നമ്മൾ മെഷീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിൻറെ ഭാഗമാകുമ്പോഴോ കൃത്യമായി 25 മില്ലീമീറ്ററിൽ ഉത്പാദിപ്പിക്കുന്നത് എളുപ്പമല്ല എല്ലായ്പ്പോഴും പ്ലസ് അല്ലെങ്കിൽ മൈനസ് തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടായിരിക്കും അത്തരം കാര്യങ്ങളെ ടോളറൻസ് എന്ന് വിളിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും അത്തരം ടോളറൻസ്കൾ ഇല്ലാത്തപ്പോൾ മാത്രം ചെയിൻ ഡൈമെൻഷൻസ് കാണിക്കുന്ന ഒരു അവസ്ഥയി ലേക്ക് നമ്മൾ എത്തിച്ചേരും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇത് 25 പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആയിരിക്കണം അതിനർത്ഥം എല്ലായ്പ്പോഴും ഒരുതരം വിടവ് കാണും അതിനാൽ ഭാഗങ്ങൾക്കിടയിൽ അത്തരം പാളികൾ നിലനിൽക്കുമ്പോൾ തുടർച്ചയായ ചെയിൻ ഡൈമെൻഷൻസ് സാധ്യമല്ല ഇത് യന്ത്രം പ്രവർത്തിപ്പിക്കുന്ന ആളിനെ അനാവശ്യമായി ആശയക്കുഴപ്പത്തിലാക്കുന്നു അതിനാൽ അത്തരം ടോളറൻസുകളുടെ ശേഖരണം സാധ്യമല്ലാത്തപ്പോൾ മാത്രമാണ് നമ്മൾ ചെയിൻ ഡൈമൻഷനിംഗ് ഉപയോഗിക്കുന്നത് അത് ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ചെയിൻ ഡൈമെൻഷനുമായി പോകണം ഇത് ഒരുതരം തുടർച്ചയായ കാര്യമാണ് നമുക്ക് ഒരു സിലിണ്ടർ ഒബ്ജക്റ്റ് എടുക്കാം ഇവിടെ ചെയിൻ ഡൈമെൻഷൻസ് പ്രതിനിധീകരിക്കുന്നതിന് പകരം നമ്മൾ സമാന്തര ഡൈമൻഷനിംഗ്മായി പോകുന്നു അതിനാൽ എല്ലായ്പ്പോഴും ഒരു റഫറൻസ് ബേസ് ഉണ്ടായിരിക്കണം നമുക്ക് ഒരു ഹൈലൈറ്ററിലൂടെ നോക്കാം ഇതാണ് റഫറൻസ് അടിത്തറ ആ റഫറൻസ് അടിത്തറയിൽ നിന്ന് നമ്മൾ 15 യൂണിറ്റുകൾ ഉള്ള ഡൈമെൻഷൻസ്എടുക്കാൻ പോകുന്നു അതുപോലെ ആ റഫറൻസ് അടിത്തറയിൽ നിന്ന് ഇത് 30 യൂണിറ്റിലാണ് അതുപോലെ ഈ റഫറൻസ് അടിത്തറയിൽ നിന്ന് നമുക്ക് 45 യൂണിറ്റുകളുണ്ട് അതിനാൽ ഈ റഫറൻസ് ഉപയോഗിച്ച് ഏത് ദൈർഘ്യം പ്രതിനിധീകരിക്കുന്നത് വളരെ എളുപ്പമാണ് അത്തരത്തിലുള്ള ഒരു കാര്യം പ്രത്യേകിച്ചും നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് പരസ്പരം സമാന്തരമായിരിക്കും അത്തരം ഡൈമെൻഷൻസ്കളെ നമ്മൾ സമാന്തര ഡൈമെൻഷൻസ് എന്ന് വിളിക്കുന്നു ഒരു പൊതു സവിശേഷതയിൽ നിന്ന് ഒരേ ദിശയിൽ ഡൈമെൻഷൻസ്കളുടെ എണ്ണം അളക്കുമ്പോൾ ഇവിടെ പൊതുവായ സവിശേഷത ഇതാണ് അതാണ് ഭാഗത്തിന്റെ ഉപരിതലം തുടർന്ന് ഒരേ സവിശേഷതയിൽ ഉള്ള എല്ലാ ഡൈമെൻഷൻസുകളെയും സൂചിപ്പിക്കുന്ന രീതിയെ സമാന്തര ഡൈമെൻഷൻസ് എന്ന് വിളിക്കുന്നു ഡൈമെൻഷൻസ് പരസ്പരം സമാന്തരവും തുല്യ അകലത്തിലുമാണെന്ന കാര്യം ശ്രദ്ധിക്കുക ഈ വിടവ് ഒന്നായിരിക്കും അത്തരം ഡൈമെൻഷൻസ്കളെ സമാന്തര ഡൈമെൻഷൻസ് എന്ന് വിളിക്കുന്നു സംയോജിത അളവ് എന്ന് വിളിക്കുന്ന ഇവയെ ഡൈമെൻഷൻ ചെയ്യാൻ ഒരു വഴിയുണ്ട് നമുക്ക് ഈ ഒബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം ഇതാണ് ഒബ്ജക്റ്റ് ഇവ വിപുലീകരണ രേഖകളാണ് അതിനാൽ ഇവ ഒരുതരം തുടർച്ചയായ ചെയിൻ ഡൈമെൻഷൻ ആണ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 20 15 20 എന്നിവ പരസ്പരം അടുത്താണ് ഇത് ഒരു തുടർച്ചയായ ചെയിൻ ഡൈമെൻഷൻ ആണ് നമുക്ക് മറ്റുള്ളവയെ നോക്കാം ഇതും ഇതും ഇതും ഈ 8 മില്ലീമീറ്ററും ഈ 8 മില്ലീമീറ്ററും നോക്കുകയാണെങ്കിൽ അവ സമാന്തരം ആണ് അതിനാൽ ഈ 8 എംഎം ഭാഗങ്ങൾക്ക് സമാന്തരമായി നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഈ 20 നു സമാന്തരമായ ഡൈമെൻഷൻസും ചെയിൻ തരത്തിലുള്ള ഭാഗവും രണ്ടും ഒരേ ഡ്രോയിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളെ സംയോജിത ഡൈമെൻഷൻസ് എന്ന് വിളിക്കുന്നു ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആവശ്യത്തിനായി ചെയിൻ ഡൈമെൻഷൻസും സമാന്തര ഡൈമെൻഷൻസും സംയോജിപ്പിക്കേണ്ടത് ആവശ്യമാണ് ചില സമയങ്ങളിൽ കോർഡിനേറ്റുകളും ഉപയോഗിച്ച് ഡൈമെൻഷൻ ഉപയോഗിക്കേണ്ടതുണ്ട് ഭാഗത്തിന് നിരവധി ഡൈമെൻഷൻസ് ഉള്ളപ്പോൾ വായിക്കാൻ എളുപ്പമാണ് കോർഡിനേറ്റുകൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു ഉദാഹരണം നമുക്ക് പരിഗണിക്കാം ഇവിടെ ഒരു പ്ലേറ്റിൽ ധാരാളം ദ്വാരങ്ങളുണ്ട് നമുക്ക് ആ പ്ലേറ്റ് നോക്കാം ഇതാണ് ആ പ്ലേറ്റ് വ്യത്യസ്ത വലുപ്പത്തിലുള്ള നിരവധി ദ്വാരങ്ങളുണ്ട് ഇപ്പോൾ ഡൈമെൻഷൻസ് കാണിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അൽപ്പം വിചിത്രമായിത്തീരുന്നു അത് വളരെ വിചിത്രമായിത്തീരുന്നു അതിനാൽ ഈ ഒബ്ജക്റ്റിന് ചുറ്റും ഈ അളവുകളെല്ലാം കാണിക്കുന്നത് നല്ല രീതിയല്ല അതിനുപകരം കാര്യങ്ങൾ പട്ടികപ്പെടുത്തുന്നത് ഒരു പതിവാണ് ഒരു ദ്വാരം ഉള്ളപ്പോഴെല്ലാം ഈ വിചിത്രമായ രേഖകൾ ഉണ്ടാകുന്നു ഇത് ഒരു ചതുരാകൃതിയിലുള്ള പ്ലേറ്റിലൂടെ ഒരു ദ്വാരം തുരത്തുന്നതിന് തുല്യം ആണ് ഇവിടെ നമുക്ക് വ്യത്യസ്ത ദ്വാരങ്ങളുണ്ട് 1 2 3 4 മുതൽ 11 വരെ ആകെ 11 ദ്വാരങ്ങൾ ഈ പെട്ടിയിൽ ഉണ്ട് അതിനാൽ ഈ ചതുരാകൃതിയിലുള്ള പ്ലേറ്റിനെ പ്രതിനിധീകരിക്കാൻ നമുക്ക് താൽപ്പര്യമില്ലാത്തപ്പോൾ ദ്വാരങ്ങളും അവയുടെ സ്ഥാനവും കാണിക്കാൻ സാധാരണയായി നമ്മൾ ഇത്തരത്തിലുള്ള ടാഗിംഗുമായി പോകുന്നു നിങ്ങൾ 1 2 3 എന്ന പേര് നൽകുകയും അതിന്റെ എക്സ് കോർഡിനേറ്റുകളെയും അതിന്റെ വൈ കോർഡിനേറ്റുകളെയും ടാഗ് ചെയ്യുക അതിനാൽ ഹോൾ 1 എക്സ് നും വൈ നും ഇത് 15 യൂണിറ്റിലും 25 യൂണിറ്റിലുമാണ് ഒരുപക്ഷേ എക്സ് ദിശയിൽ ഇത് 15 യൂണിറ്റാണെന്ന് നമുക്കറിയാം അതിനാൽ ഇത് 15 യൂണിറ്റാണെന്നും അത് നോക്കുകയാണെങ്കിൽ ഇത് 25 യൂണിറ്റാണെന്നും നമുക്ക് കാണാം ഇത് 15 ഉം 25 ഉം ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയാണിത് ആ ദ്വാരത്തിന്റെ കേന്ദ്രം 15 25 യൂണിറ്റുകളിലാണ് വലുപ്പം അടിസ്ഥാനപരമായി വ്യാസത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഈ മുഴുവൻ വ്യാസവും നമ്മൾ 5 10 യൂണിറ്റ് ലീഡർ രേഖകൾ ഉപയോഗിച്ച് കാണിക്കാൻ പോകുന്നു അതുപോലെ രണ്ടാമത്തെ ദ്വാരത്തിനു ഇത് വീണ്ടും 15 യൂണിറ്റാണ് അതുകൊണ്ടാണ് നമുക്ക് എക്സ് ഡൈമെൻഷൻ 15 ഉള്ളത് അത് Y ദിശയിൽ കൂടുതൽ ദൂരത്തിലാണ് അതിനാൽ രണ്ടാമത്തെ ദ്വാരത്തിന് അത് 65 ആണ് അതിനുള്ള വ്യാസം 10 ആണ് നമുക്ക് വലിയ ദ്വാരം നോക്കാം നമുക്ക് ഈ ദ്വാരത്തിന്റെ ഡൈമെൻഷൻസ് നോക്കി മനസിലാക്കാം ഈ ഭാഗം 8 ഡാഷ് ഡോട്ട് ലൈനുകളുള്ള ദ്വാരമാണിത് ഇത് എക്സ് ദിശയിൽ 60 യൂണിറ്റിലും ലംബ ദിശയിൽ 50 യൂണിറ്റിലും സ്ഥിതിചെയ്യുന്നു ഇതിന് 15 യൂണിറ്റ് വ്യാസമുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ 11 ാം ഭാഗം തിരഞ്ഞെടുക്കാം തിരശ്ചീന ദിശയിൽ ഇത് 90 യൂണിറ്റിലാണ് ഇത് 20 യൂണിറ്റിലാണ് അതിനാൽ ഈ ഡൈമെൻഷൻസ്കളെല്ലാം അല്പം അലങ്കോലമായി കാണിക്കുന്നതിനുപകരം നമ്മൾ ഒരു ടാഗ് ടേബിളുമായി പോകുന്നു ഇത്തരത്തിലുള്ളവയെ കോർഡിനേറ്റുകൾ ഡൈമെൻഷനിംഗ് ബൈ കോർഡിനേ റ്റ് എന്ന് വിളിക്കുന്നു അതുപോലെ വൃത്താകൃതിയിലുള്ള സവിശേഷതകൾ ഉള്ളപ്പോഴെല്ലാം വ്യാസം കാണിക്കുന്നതിന് വ്യത്യസ്ത മാർഗങ്ങളുണ്ട് നമുക്ക് ഒരു വൃത്തം ഉദാഹരണം ആയി തിരഞ്ഞെടുക്കാം ഇത് ഒരു വൃത്തമാണെങ്കിൽ ദൂരത്തിന് പകരം അതിന്റെ വ്യാസം നൽകി അതിനെ ഡൈമെൻഷൻ ചെയ്യണം ആർക്കുകൾക്കായി മാത്രം നമ്മൾ ആരം ഉപയോഗിക്കുന്നു എല്ലാത്തരം വൃത്തങ്ങൾക്കു നമ്മൾ വ്യാസ അളവുകളുമായി പോകണം നമുക്ക് ഈ വൃത്തം തിരഞ്ഞെടുക്കാം ഈ വിടവ് വലുതായതിനാൽ ഒരാൾക്ക് ഒരു അമ്പടയാളം ഫൈ 30 ഉള്ള ഒരു ലീഡർ രേഖ എന്നിവ ഉപയോഗിച്ച് കാണിക്കാൻ കഴിയും സാധാരണയായി ഈ ലീഡർ രേഖ കൾ നമ്മൾ തിരശ്ചീനമായി സൂക്ഷിക്കുന്നു ഇതാണ് രീതി അതിനടുത്തായി വ്യാസത്തിന്റെ ഡൈമെൻഷൻ പ്രതിനിധീകരിക്കുന്ന ഫൈ ചിഹ്നം നമ്മൾ കാണിക്കുന്നു കാര്യങ്ങൾ കാണിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് നമുക്ക് മറ്റ് ഡൈമെൻഷനിങ് രീതികൾ നോക്കാം ഉദാഹരണത്തിന് ഇത് മറ്റൊരു വൃത്തം ആണ് ഇത് വൃത്തത്തിന്റെ വിപുലീകരണ രേഖകളാണ് ഫൈ 30 യൂണിറ്റിന്റെ കാര്യത്തിലും ഒരാൾക്ക് ഇത് കാണിക്കാൻ കഴിയും ഇത് മറ്റൊരു വഴിയാണ് നമുക്ക് ഒരു ദ്വാരവും മറ്റ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണയായി ഈ ഡാഷ് ഡോട്ട് ഉപയോഗിച്ചു കാണിക്കുന്നു ദ്വാരങ്ങളോ വൃത്തങ്ങളോ ആണ് ഉപയോഗിക്കുന്നതെങ്കിലും ഈ ഡാഷ് ഡോട്ട് രേഖകൾ കാണിക്കാൻ നമുക്ക് കഴിയും ഈ ഡൈമെൻഷൻ കാണിക്കുന്നതിന് മറ്റൊരു വഴിയുണ്ട് ഈ ഡൈമൻഷൻ രേഖ ഇരട്ട അമ്പടയാളങ്ങൾ ഉപയോഗിച്ച് കാണിക്കുന്നതിനുപകരം ഒരാൾക്ക് ഒരു അമ്പടയാളം ഉപയോഗിച്ച് കാണിക്കാൻ കഴിയും ഫൈ 7 5 ഉള്ള ഒരു ലീഡർ രേഖ ഉപയോഗിച്ച് കാണിക്കാം അതിനാൽ ഈ രീതിയിൽ നമുക്ക് ഒരു വൃത്തമുണ്ടെന്നും അതിന്റെ വ്യാസം 7 5 യൂണിറ്റിനോട് പ്രതിനിധീകരിക്കാം നമുക്ക് സാധാരണയായി വൈവിധ്യമാർന്ന വൃത്താകൃതി സവിശേഷതകൾ കാണാൻ കഴിയും ഇത് ഒരു പ്ലാനാർ വൃത്തം പോലെയാണെങ്കിൽ നമ്മൾ വ്യാസത്തിനെ ഫൈ ആയി പ്രതിനിധീകരിക്കുന്നു ചില സമയങ്ങളിൽ നമ്മൾ ഹമ്പ് തരത്തിലുള്ള ആകൃതികൾ വളവുകൾ വൃത്താകൃതിയിലുള്ള വളവുകൾ എന്നിവ കാണുന്നു ഇത് ഒരു വൃത്തം അല്ലാത്തതിനാൽ നമ്മൾ അതിനെ അങ്ങനെ പ്രതിനിധീകരിക്കുന്നില്ല അത് ഒരു ഹമ്പ് മാത്രമാണ് അതിന് ഒരു ആരമുണ്ട് അതിനാൽ ഒരുപക്ഷേ ഇത് കേന്ദ്രമാണ് അവിടെ നിന്ന് അത് R5 യൂണിറ്റുകളായിരിക്കാം അതിനാൽ ഒബ്ജക്റ്റിനുള്ളിലെ ഡൈമെൻഷൻസ്കൾ കാണിക്കുന്നതിനുപകരം നമ്മൾ സാധാരണയായി അത് ആ രീതിയിൽ കാണിക്കുന്നു ഇത്തരത്തിലുള്ള വളവുകൾക്കായി ആ കേന്ദ്രവും കാണിക്കേണ്ടത് ആവശ്യമാണ് ആ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ദൂരം അളക്കാൻ കഴിയും അതിനാൽ നമ്മൾ അത് പിന്തുടരുന്നു ഇത് സിലിണ്ടർ വസ്തുക്കളും വ്യാസവും പോലെയാണെങ്കിൽ ഒബ്ജക്റ്റിനുള്ളിൽ കാണിക്കുന്നതിനുപകരം ഇത് ഇങ്ങനെ കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ ചെയ്യുന്നത് ഒരു ചതുരാകൃതിയിലുള്ള ഒബ്ജക്റ്റിനുള്ള ഡൈമെൻഷൻസ് ഉപയോഗിക്കുന്നു എന്നതാണ് കാരണം ഈ ഭാഗത്ത് നിന്ന് ഒരു സിലിണ്ടർ നോക്കുകയാണെങ്കിൽ അത് ഒരു ദീർഘചതുരം പോലെ കാണപ്പെടുന്നു ഈ കാഴ്ചപ്പാടുകൾ പിന്നീടുള്ള പ്രഭാഷണങ്ങളിൽ നാം പഠിക്കും ആ ഡൈമെൻഷൻസ്കൾക്കായി ഫൈ 6 മില്ലിമീറ്റർ ഡൈമെൻഷൻ ആണ് നമ്മൾ കാണിക്കുന്നത് അതിനാൽ ഒരു വൃത്തം ഡൈമെൻഷൻ ചെയ്യുമ്പോൾ അത് വ്യാസം ഉപയോഗിച്ച് വേണം ചെയ്യാൻ ആരം ഉപയോഗിച്ച് ആകരുത് വൃത്തങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന നിരവധി ദ്വാരങ്ങളുണ്ട് ഇവിടെ ഒരു വൃത്തം ഉണ്ട് ഇവിടെ മറ്റൊരു വൃത്തം ഉണ്ട് അങ്ങനെ എൻ വൃത്തങ്ങൾ ഉണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പ്രധാന വൃത്തത്തിനൊപ്പം എത്ര വൃത്തങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പരാമർശിക്കണം അതിനാൽ സാധാരണയായി നമ്മൾ ആ പ്രധാന വൃത്തത്തിന്റെ വ്യാസവും ഈ വൃത്തങ്ങൾക്കിടയിലുള്ള മധ്യത്തിലുള്ള ദൂരത്തേയും ലീഡർ രേഖയിലൂടെ പ്രതിനിധീകരിക്കുന്നു കാരണം അവ ഒരേ അകലത്തിലാണ് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ദ്വാരങ്ങളുടെ എണ്ണത്തെ പ്രതിനിധീകരിക്കുന്നു അല്ലാത്തപക്ഷം ഒരാൾക്ക് ആ വൃത്തങ്ങൾ ഉണ്ടാക്കിയ ആംഗിൾ കാണിക്കാൻ കഴിയും ആ വൃത്തത്തിന്റെ മധ്യഭാഗത്തെ മറ്റ് പെരിഫറൽ വൃത്തങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദൂരം ആ കോണും എന്താണ് എന്ന് നമ്മൾ സാധാരണയായി പരാമർശിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ഈ ഡ്രോയിംഗ് നോക്കാം ഇവിടെ വൃത്തങ്ങൾ ഉണ്ട് ഈ വൃത്താകൃതിയിലുള്ള ദ്വാരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രധാന വസ്തുവാണ് ഇത് ഈ ദ്വാരങ്ങൾ ഉള്ളപ്പോഴെല്ലാം ഡാഷ് ഡോട്ട് തരത്തിലുള്ള രേഖകളിലൂടെ ഇത് കാണിക്കുന്നത് പതിവാണ് അവ ഈ സർക്കിളിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ 1 2 3 എന്നീ ചെറിയ ദ്വാരങ്ങൾ നമ്മൾ കാണിച്ച ഡാഷ് ഡോട്ട് തരം വളവിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ സ്വാഭാവികമായും നമ്മൾ ആ ഡൈമെൻഷൻ കാണിക്കാൻ പോകുന്നു ഇത് ഏകദേശം 60 യൂണിറ്റുകളാണ് തിരശ്ചീനമായ ഈ വൃത്തം 18 ഡിഗ്രിയിൽ സ്ഥാപിച്ചിരിക്കുന്നു ഒരുപക്ഷേ ഈ സർക്കിളുകളുടെ റേഡിയൽ സ്ഥാനം 30 ഡിഗ്രി ആയിരിക്കും ഒരുപക്ഷേ ഈ റേഡിയൽ സ്ഥാനം 15 ഡിഗ്രിയിൽ സ്ഥാപിച്ചിരിക്കാം അത്തരം കാര്യങ്ങൾ നമ്മൾ സാധാരണയായി കാണിക്കുന്നു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് 1 2 3 എന്നീ മൂന്ന് ദ്വാരങ്ങളാണ് ആ ദ്വാരത്തിന്റെ വ്യാസം ഒരുപക്ഷേ 10 യൂണിറ്റാണ് മറ്റ് ഡൈമെൻഷൻസ്കളെക്കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ അവശേഷിക്കുന്ന മറ്റു കാര്യങ്ങൾ നമ്മൾ പഠിക്കും അതുപോലെ ആർക്കുകൾ ഉണ്ടാകുമ്പോഴെല്ലാം നമ്മൾ അതിനെ ദൂരവും അതിന്റെ കേന്ദ്രവും ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നു അതുപോലെ ഈ വൃത്തത്തിന്റെ കേന്ദ്രവുമുണ്ട് ഉദാഹരണത്തിന് ഇത് മറ്റൊരു ആർക്ക് ആണ് ഈ കേന്ദ്രത്തിൽ നിന്ന് അത് 10 യൂണിറ്റാണെന്നും ചിഹ്നം ആർ ആണെന്നും കണക്കാക്കിയാൽ നമ്മൾ അത് ഒബ്ജക്റ്റിനുള്ളിൽ ഉപയോഗിക്കുന്നില്ല അതിനാൽ നമ്മൾ സാധാരണയായി 10 യൂണിറ്റുകളുള്ള ലീഡർ രേഖയിലൂടെ പുറത്തുനിന്നുള്ള ദൂരം കാണിക്കുകയും ആ ആർക്കിന്റെ മധ്യഭാഗത്തെ 10 പ്ലസ് 10 ചിഹ്നം ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു സ്ലൈഡ് മയം കാണുക 3052 അതുപോലെ ഇവിടെ നിന്ന് ബാഹ്യ വളവുകളും ഉണ്ട് ആർകിന്റെ കേന്ദ്രം വസ്തുവിന്റെ ഉള്ളിലല്ല അതിനു പുറത്താണ് അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ 46 യൂണിറ്റുകൾ കാണിക്കുന്നു ഈ ദൂരം ഈ കേന്ദ്രത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ നമുക്ക് ഈ ബാഹ്യ വസ്തു ഉള്ളതിനാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു റഫറൻസ് ഡൈമെൻഷൻ ഉണ്ടായിരിക്കണം അത് വസ്തുവിന്റെ മധ്യഭാഗത്ത് നിന്ന് 95 യൂണിറ്റുകളായിരിക്കണം അതുപോലെ റഫറൻസ് ഡൈമെൻഷൻ ഈ കേന്ദ്രത്തിൽ നിന്ന് 80 മില്ലീമീറ്ററാണ് നമ്മൾ ഇത് കാണിക്കുന്ന രീതി ഇങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വസ്തുക്കളുടെ ഡൈമെൻഷൻസിനായി ഉപയോഗിക്കുന്ന പ്രത്യേക ഡൈമെൻഷനുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അടുത്ത ക്ലാസ്സിൽ ടോളറൻസിനെ ക്കുറിച്ച് നമുക്ക് കൂടുതലറിയും